സൂചക പദങ്ങൾ മൂടുപടം അവലോകനം ചർച്ച ഈ അദ്ധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രേംചന്ദ് എന്ന കഥാകൃത്ത് ഉറുദ്ദു ഭാഷയിൽ രചിച്ച മൂടുപടം എന്ന കഥയെ മൊത്തത്തിൽ അവലോകനം ചെയ്യുന്ന തരത്തിൽ പ്രൊഫസ്സർ ദിവ്യയും ശിഷ്യയായ ആര്യയും തമ്മിൽ നടത്തപ്പെടുന്ന സംഭാഷണത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ചർച്ച ആണ് പ്രൊഫസ്സർ ഹലോ ഈ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും ഈ കോഴ്സിലെ എൻ്റെ ഇൻ്റേൺ ആയ ആര്യ യും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ആര്യ പോണ്ടിച്ചേരി സർവ്വകലാശാലയിൽ എംഎ വിദ്യാർത്ഥിനി ആണ് പ്രൊഫസ്സർ ഹലോ ആര്യ ആര്യ ഹലോ മാഡം പ്രൊഫസ്സർ ആര്യ എങ്ങനെയാണ് ഈ കഥ കണ്ടെത്തിയത് ആര്യ ഞാൻ ഇതുവരെ കടന്നുപോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിഷമം പിടിച്ചതും സങ്കീർണ്ണമായതുമായ ഒരു കഥയാണ് മൂടുപടം കാരണം മാഡത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞതുപോലെ ഈ കഥയിൽ പ്രത്യേകിച്ച് എടുത്തു പറയാതെ പോയ പല കാര്യങ്ങളുമുണ്ട് ആര്യ ഇവിടെ നിരവധി ചോദ്യങ്ങളുണ്ട് ഇവയിൽ ഏറെയും ഇതിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നുവന്നതും മറ്റു വായനക്കാരുടെ മനസ്സിൽ ഉയർന്നു വരാൻ ഇടയുള്ളതുമായ ചോദ്യങ്ങളാണ് ഘിസുവും മാധവും ഇത്രയും മടിയൻമാരായിട്ടും ആളുകൾ എന്തിനാണ് അവരെ സഹായിക്കുന്നത് എന്തിനാണ് മാധവ് എന്ന മനുഷ്യനെ ബുധിയ വിവാഹം കഴിച്ചത് എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ അവർ ശരിക്കും സഹതാപമുള്ളവരാണോ മാധവിൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു ഇതു ചോദിക്കാനുള്ള കാരണം ഒരിക്കൽ അസുഖം ബാധിച്ചപ്പോൾ തൻ്റെ ഭാര്യയെ പരിചരിച്ചിട്ടുണ്ടെന്ന് ഘിസു പറയുന്നുണ്ട് എന്നതാണ് ആ മനുഷ്യൻ ഈ പറയുന്നതു പോലെ സഹതാപമുള്ള ആളാണെങ്കിൽ ബുധിയയുടെ അടുത്തു പോയി അവളുടെ അവസ്ഥ എന്താണ് എന്ന് നോക്കുകയെങ്കിലും ചെയ്യണമായിരുന്നു അതിനാൽ ഇത് എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചു എൻ്റെ മനസ്സിനെ പിടിച്ചുലച്ച ഏറ്റവും ശക്തമായ കഥകളിലൊന്നാണ് ഇത് എന്നു ഞാൻ കണ്ടെത്തി കാരണം ആ സ്ത്രീ അവിടെ ഈച്ചയരിച്ച് ചത്തുകിടക്കുന്ന ചിത്രം എൻ്റെ മനസ്സിൽ വിഭാവനം ചെയ്യാൻ എനിക്ക് സാധിച്ചു അതിനാൽ ഇത് അതി ഭീകരമായ കഥകളിൽ ഒന്നാണ് എന്നാണ് എനിക്കു തോന്നുന്നത് പ്രൊഫസ്സർ ഇത് തികച്ചും ഏകപക്ഷീയമായ ഒരു കഥയാണ് മാത്രമല്ല ഇത് തീർച്ചയായും വളരെ കഠിനവുമാണ് ഘിസു തൻ്റെ ഭാര്യ മരിക്കുമ്പോൾ അവളെ പരിചരിക്കുന്നതിനെക്കുറിച്ച് ഈ കഥയിൽ സൂചിപ്പിച്ച വളരെ രസകരമായ ഒരു ഭാഗം നമുക്ക് നോക്കാം അത് ഞാൻ നമ്മുടെ പ്രേക്ഷകരുടെ പ്രയോജനത്തിനായി വായിക്കാം ഈ വിവർത്തനം അർഷിയ സത്താറിൻ്റേത് ആണ് ഇത് ഹിന്ദിയിൽ നിന്ന് വിവർത്തനം ചെയ്തതാണ് ഈ കഥയിൽ നിന്നും നമുക്ക് താൽപ്പര്യമുള്ള പ്രത്യേക ഉദ്ധരണിയാണിത് ഇത് എൻ്റെ ഇന്ത്യൻ മാസ്റ്റർ പീസുകളുടെ ശേഖരത്തിൽ 15 ാം പേജിലുണ്ട് അത് എഡിറ്റ് ചെയ്തത് ഡേവിഡ് ഡേവിദാർ ആണ് അതുകൊണ്ട് എൻ്റെ വിവർത്തനം ഈ ശേഖരത്തിൽ നിന്നാണ് അങ്ങനെ മൂടുപടം എന്ന കഥയിലെ 15 ാം പേജിൽ ഘിസു ഇപ്രകാരം പറയുന്നു "എൻ്റെ ഭാര്യ മരിക്കുമ്പോൾ ഞാൻ അവളുടെ അരികിൽ നിന്നും മൂന്ന് ദിവസത്തേക്ക് എങ്ങോട്ടും മാറിയതേ ഇല്ല ഈ ഒരു ബുധിയ അവൾ എൻ്റെ മുന്നിൽ ലജ്ജിക്കും ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല ഞാൻ അവളുടെ മുഖം പോലും കണ്ടിട്ടില്ല ഇപ്പോൾ അവളുടെ മൂടുപടമില്ലാത്ത ശരീരത്തിലേക്ക് നോക്കേണ്ടി വരില്ലേ എന്നാണോ അവൾ അസ്വസ്ഥയാകും അത്ര തന്നെ എന്നെ കണ്ടാൽ അവളുടെ കൈകളും കാലുകളും സ്വതന്ത്രമായി ചലിപ്പിക്കുവാൻ പോലും അവൾക്ക് കഴിയുമായിരുന്നില്ല പ്രൊഫസ്സർഅതിനാൽ വിവിധ കഥാപാത്രങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളേയും ഘിസുവിൻ്റെ സ്വഭാവത്തേയും കുറിച്ചുള്ള സുപ്രധാനമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് ഘിസു പറയുന്നത് തൻ്റെ ഭാര്യ മരിക്കുമ്പോൾ താൻ അവളെ സമീപിച്ചിരുന്നു എന്നാണ് പക്ഷേ ഘിസു പറയുന്നതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതാണോ എന്നതാണ് ഇവിടെ ഏറ്റവും വലിയ ചോദ്യം അതാണ് ലക്ഷങ്ങളുടെ വിലയുള്ള ചോദ്യം പ്രൊഫസ്സർ മാത്രമല്ല എനിക്ക് വേണ്ടത് ഈയൊരു സന്ദർഭത്തെ ഈ കഥയിലെ തന്നെ മറ്റൊരു സന്ദർഭവുമായി ചേർത്തു വായിക്കുക എന്നതതാണ് അതായത് ഘിസുവും മാധവും രണ്ടുപേരും കൂടി ഭൂവുടമയുടെ അടുത്ത് ചെന്ന് അയാളോട് എന്തോ സംസാരിക്കുന്നതായ ആ സന്ദർഭം അത് എന്താണെന്ന് നോക്കാം കഥാകൃത്ത് ഇതേപ്പറ്റി വിവരിക്കുന്നത് ഇപ്രകാരമാണ് അങ്ങനെ ഘിസു തൻ്റെ തല നിലത്തു തൊടുന്ന തരത്തിൽ ഭൂവുടമയെ നമിച്ചു കൊണ്ട് പറഞ്ഞു ഏമാനേ ഞാൻ നശിച്ചു കഴിഞ്ഞു ഇന്നലെ രാത്രിയാണ് എൻ്റെ മകൻ മാധവിൻ്റെ ഭാര്യ മരിച്ചത് രാത്രി മുഴുവൻ അവൾ വളരെയേറെ കഷ്ടപ്പെട്ടു ഞങ്ങൾ രണ്ടുപേരും പാതിരാത്രി വരെയും അവളുടെ അരികിൽ ഇരുന്നു ഞങ്ങളാൽ കഴിയുന്ന മരുന്നുകളെല്ലാം ഞങ്ങൾ അവൾക്ക് നൽകി പ്രൊഫസ്സർ ഘിസു മുമ്പ് പറഞ്ഞ ഈ വാക്കുകൾ സത്യത്തിനു നിരക്കാത്തതും തികഞ്ഞ അസംബന്ധങ്ങളും ആയിരുന്നില്ലേ അങ്ങനെയെങ്കിൽ ഘിസു ഇപ്പോൾ പറയുന്ന വാക്കുകൾ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാനാകും എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ് പ്രൊഫസ്സർ പാതിരാത്രിയിൽ അവർ അവളുടെ കൂടെ ഇരുന്നു അവളെ അതായത് ബുധിയയെ പരിചരിക്കുകയോ മരുന്നുകൾ കൊടുക്കുകയോ ചെയ്തിട്ടേ ഇല്ലാ എന്ന് നമുക്ക് ഉറപ്പായും അറിയാവുന്നതുമാണ് ഘിസു നടത്തിയ ഈ അവകാശവാദങ്ങളും അതിശയോക്തി കലർന്ന പ്രസ്താവനകളുമായി നാം എങ്ങനെയാണ് പൊരുത്തപ്പെടേണ്ടത് ഇത് വളരെ രസകരവുമാണ് ഈ രണ്ട് കഥാപാത്രങ്ങളിൽ നിന്നും നാം കേൾക്കുന്ന ഈ വിവരണങ്ങളിലെല്ലാം എന്താണ് സത്യം ഏതാണ് അസത്യം എന്ന് തിരിച്ചറിയുക എന്നത് അത്ര എളുപ്പമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആര്യ മാഡം നിങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് ഒരു സൂചന എടുത്ത് ഈ കഥയുടെ രചയിതാവിനെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും എന്നു ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രൊഫസ്സർ അത് വളരെ നല്ല ഒരു ചോദ്യമാണ് ഒരുപക്ഷേ ആ കാര്യം മാത്രമാണ് നമുക്ക് മുന്നിൽ ഉള്ളത് ഈ കഥാലോകത്തിലൂടെ നമ്മെ കൈപിടിച്ചു നയിക്കുന്ന വ്യക്തിയാണ് കഥാകൃത്ത് അദ്ദേഹം നമ്മോട് സവിശേഷമായ ഒരു കഥ പറയുന്നുണ്ട് ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് അതാണ് വായനക്കാരെന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒപ്പം എനിക്കും നിങ്ങളുടെ ചോദ്യം ഏതു ദിശയിലേക്കാണ് പോകുന്നതെന്ന് അറിയില്ല എങ്കിലും ആഖ്യാതാവിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ പറയാൻ ചോദ്യങ്ങൾ വരുന്നതുവരെ ഞാൻ കാത്തിരിക്കാം ആര്യ മൂടുപടം എന്ന ചെറുകഥ കീഴ് ജാതിയിൽ പെട്ട സ്ത്രീകളുടെ ദയനീയമായ അവസ്ഥയിലേക്ക് വെളിച്ചം വീശുന്ന കഥ എന്ന രീതിയിൽ വായിക്കാം ഈ കഥയുടെ ആഖ്യാനത്തിൽ അവൾ സ്ഥിരമായി കയ്യാളുന്ന ഒരേയൊരു സ്ഥലം ആ കുടിൽ മാത്രമാണ് അപ്പോൾ ബുധിയ എന്ന കഥാപാത്രത്തിലൂടെ ദളിത് സ്ത്രീകളുടെ സ്ഥലകാല തടവറയെ അവതരിപ്പിച്ചു കാട്ടുകയല്ലേ ഈയൊരു ചെറുകഥ ചെയ്യുന്നത് പ്രൊഫസ്സർ അതെ ഈയൊരു കഥയിൽ ഈ ആഖ്യാനം ചരുളഴിയുമ്പോൾ ഇത് അല്പ നേരത്തേക്കു മാത്രമുള്ള ഒരു ദൃശ്യം അഥവാ ഒരു ക്ഷണികദൃശ്യം മാത്രമാണെന്ന് നാം ഓർക്കേണ്ടതുണ്ട് ഈ കോഴ്സിൽ നാം കടന്നു പോകുന്ന ആഖ്യാനങ്ങളിൽ സുദീർഘമല്ലാത്ത വിവരണങ്ങളെ പരാമർശിക്കാൻ ഞാൻ തുടർന്നും ഉപയോഗിക്കുവാൻ പോകുന്ന ഒരു പദമാണിത് അതിനാൽ ഇവിടെ നമുക്ക് ഒരു ജാലകം ലഭിക്കുന്നതു പോലെയാണ് ആരുടേയോ ആത്മാവിലേക്ക് ആരുടേയോ ജീവിതത്തിലേക്ക് ഒരല്പ സമയത്തേക്കുള്ള ഒരു എത്തി നോട്ടം ഒരാളുടെ ജീവിതത്തിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണിത് അതായത് ജീവിതത്തിൻ്റെ അഥവാ ലോകത്തിൻ്റെ തന്നെ ആ ഒരു ഭാഗം നമുക്ക് കാട്ടിത്തന്നപ്പോൾ ബുധിയ അവളുടെ കുടിലിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഥയുടെ ആദ്യത്തെ ഏതാനും രംഗങ്ങൾ കഴിയുന്നതു വരേയും നാം ബുധിയ എന്ന കഥാപാത്രത്തെ കാണുന്നതേ ഇല്ല കഥയിൽ നാം അവളെ കാണുമ്പോൾ അവൾ മരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആയിരുന്നു അതിനാൽ ഈ കഥയിലെ ആദ്യ ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്ന അവളുടെ കഥാപാത്രം അക്ഷരാർത്ഥത്തിൽ ആ കുടിലിൽ തന്നെ ഒതുങ്ങുന്നു എന്നാൽ ആഖ്യാനത്തിൽ മറ്റ് ചില സൂചനകൾ കൂടിയുണ്ട് അവൾ ഈ പുരുഷന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ചവൾ ആയിരുന്നുവെന്ന് കഥാകൃത്ത് നമ്മോടു പറയുന്നു ഗ്രാമവാസികൾക്കു വേണ്ടി ധാന്യങ്ങൾ പൊടിക്കുന്ന ജോലികൾ ചെയ്തു കൊടുക്കാനായി പോയിരുന്നു എന്ന് ചില വിവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ അതിനാൽ ആ കുടുംബത്തിൽ ഭക്ഷണം സമ്പാദിക്കാനായി കഷ്ടപ്പെടുന്നത് അവളാണ് അവളാണ് ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തിയിരുന്നത് അതിനാൽ സ്വഭാവികമായും അവൾക്ക് അത് ചെയ്യാനായി കുടിലിനു പുറത്തേക്ക് ഇറങ്ങണം അതിനാൽ അക്ഷരാർത്ഥത്തിൽ അവൾ കുടിലിനു പുറത്തേക്ക് പോകുന്നുണ്ട് എങ്കിലും ആലങ്കാരികവും ആത്മീയവും ആയി നോക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും കാരണം അവൾ ഒരു തരത്തിൽ ആ കുടുംബത്തിനുള്ളിൽ തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഒതുങ്ങി ജീവിക്കുന്നവളാണ് എന്നു പറയേണ്ടി വരും അതിനാൽ അവൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗത്തിലൂടെ ഈ ആശയവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അവളുടെ ശവശരീരം ഈച്ചയരിച്ച് അനാഥമായി കിടക്കുന്ന രംഗത്ത് നമുക്ക് ഈയൊരു ബന്ധനത്തെ കാണുവാൻ സാധിക്കും മൃഗങ്ങൾക്കു പോലും ചലിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെയുണ്ട് എന്നാൽ അത്ര പോലും ചലന സ്വാതന്ത്ര്യം ഇല്ലാത്ത ജീവനറ്റ പോലെയുള്ള ബുധിയയുടെ ജീവിതത്തിൻ്റെ ചിത്രം നമുക്കു മുന്നിലുണ്ട് ഇത്തരത്തിലുള്ള ഒരു വൈരുദ്ധ്യം ഇവിടെ പ്രകടമാണ് ആര്യ ശരിയാണ് മാഡം മാധവ് ഘിസു ബുധിയ എന്നിവർ ചെരുപ്പു കുത്തികളുടെ വംശത്തിൽ ഉൾപ്പെട്ടവരാണ് എന്ന് കഥയിൽ വ്യക്തമായി പരാമർശിക്കപ്പെടുന്നുണ്ട് ഭാരതത്തിൽ അത് ദളിത് സമുദായങ്ങളിൽ ഒന്നാണ് ദളിത് വീക്ഷണകോണിൽ നിന്ന് മൂടുപടം എന്ന കഥയെ വിശകലനം ചെയ്യുമ്പോൾ പ്രേംചന്ദിൻ്റെ കൃതികളിലെ ദളിതുകളെ കൌശലക്കാരും സൂത്രശാലികളുമായി ചിത്രീകരിക്കുന്നതിനെ വിമർശകർ അപലപിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ദളിത് സൌന്ദര്യശാസ്ത്രത്തിൻ്റെ അളവുകോൽ ഉപയോഗിച്ച് മൂടുപടം എന്ന കഥയെ വിശകലനം ചെയ്യുകയാണെങ്കിൽ അത് എപ്രകാരം ആയിരിക്കും പ്രൊഫസ്സർ പ്രേംചന്ദിൻ്റെ ഈയൊരു കഥയ്ക്കെതിരെ ഉള്ള ഏവർക്കും പരിചിതമായ ഒരു വിമർശനമാണിത് നാം ഇവിടെ ചില വസ്തുതകൾ പരിശോധിക്കേണ്ടതാണ് അതിനാൽ അവർ താഴ്ന്ന ജാതിയിൽ ഉള്ളവരാണെന്നും തൊട്ടുകൂടാത്തവരാണെന്നും അവർ കുലത്തൊഴിലിനെ അടിസ്ഥാനമാക്കി നോക്കിയാൽ ചെരുപ്പുകുത്തികളാണെന്നും ഉള്ള ആശയത്തിൽ നിന്നും ലഭിക്കുന്ന ഈയൊരു വിഷയത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം എന്നാൽ ഈ കഥയിൽ രസകരമെന്നു പറയട്ടെ അവർ ആ പ്രത്യേക വ്യാപാരത്തിൽ ഏർപ്പെടുന്നതായി നാം കാണുന്നതേയില്ല മാത്രമല്ല ഈ പ്രത്യേക കോഴ്സിനായി ഞാൻ വായിച്ചതും ഉപയോഗിച്ചതുമായ വിവർത്തനത്തിൽ ഒരിടത്തും അത്തരത്തിൽ ഒരു പരാമർശമില്ല അതായത് അവരുടെ ജീവിതശൈലിയുടെ ഉറവിടം അത്തരത്തിലുള്ള ഒന്നാണ് എന്ന് എവിടെയും പറയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഒരു തരം ഭൂരഹിതരായ തൊഴിലാളികളുടെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത് പ്രൊഫസ്സർ അവർ ഈ കാർഷിക ലോകവുമായി പേരിനു മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു ജാതി അവർക്ക് കല്പിച്ചു നൽകിയ കുലത്താഴിലിൽ ഒതുങ്ങിക്കൂടാൻ അവർ തയ്യാറല്ല അങ്ങനെ അവരുടെ ജാതിയും തൊഴിലും തമ്മിൽ ആരോപിക്കപ്പെടുന്ന ആ ഒരു ബന്ധത്തിന് ഇവിടെ പ്രസക്തി ഇല്ലാതാകുന്നു ഞാനിവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുന്നത് എന്തിലേക്കാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് പണിയെടുക്കാൻ ഉള്ള മനസ്ഥിതി ഉള്ളവർക്ക് ആ ഗ്രാമത്തിൽ ധാരാളം ജോലികൾ ലഭ്യമാണ് എന്നും അമ്പതോളം ജോലികൾ ഉണ്ടെന്നും ഉള്ള പരാമർശങ്ങൾ കഥാകൃത്തിൻ്റേതായി ഈ കഥയിൽ ഉണ്ട് അത് ഒരല്പം അതിശയോക്തിയാണെന്ന് ചിലരെങ്കിലും ധരിച്ചേക്കാം പക്ഷേ ആ ഒരു ധാരണ മാറ്റിനിർത്തിയാൽ ഗ്രാമത്തിൽ പലതരം ജോലികൾ ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരു സന്ദർഭത്തിൽ ഭൂവുടമ പോലും പറയുന്നു ഞാൻ നിങ്ങളെ മുമ്പ് ഈ വഴിക്കൊന്നും കണ്ടിട്ടേ ഇല്ലല്ലോ അത് നിങ്ങൾക്കറിയുകയും ചെയ്യാം എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാവുന്ന ജോലി ചെയ്യാൻ പോലും നിങ്ങൾ വരാത്തത് പ്രൊഫസ്സർ അതിനാൽ ഈ കഥയിൽ അവർ അവരുടെ ജാതിയുമായി ബന്ധപ്പെട്ട തൊഴിലായ ചെരുപ്പ് കുത്തുന്ന ജോലിയിൽ ഒതുങ്ങിക്കൂടാൻ തയ്യാറല്ല എന്നത് ഒരു കാര്യം കഥാകൃത്ത് നേരിടുന്ന പ്രശ്നം എന്നതാണ് മറ്റൊരു കാര്യം ഈ രണ്ട് കഥാപാത്രങ്ങളെയും ചിത്രീകരിക്കുന്നതിൽ ആഖ്യാതാവ് എത്രമാത്രം വസ്തുനിഷ്ഠമാണ് മറ്റൊന്ന് ഈ പ്രത്യേക ദളിത് സമൂഹത്തിനെ ഘിസുവും മാധവും എത്രത്തോളം പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ് പ്രൊഫസ്സർ ഈ കഥ വായിക്കുമ്പോൾ എനിക്കു ലഭിക്കുന്ന ധാരണ എന്നത് അവർ വിശേഷിച്ചും വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്ന അസാധാരണ സ്വഭാവമുള്ള രാക്ഷന്മാരേപ്പോലെ ആണ് എന്നതാണ് ഭൌതികമായ സാഹചര്യങ്ങൾ വച്ചു നോക്കിയാൽ അവരെപ്പോലെ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാർ വേറെയും ഉണ്ട് നിങ്ങൾക്കറിയാവുന്നതു പോലെ ആ ഗ്രാമത്തിലെ മിക്ക ആൾക്കാരും ഘിസുവിനേയും മാധവിനേയും പോലെ ദരിദ്രരാണ് എന്നാൽ ഘിസുവും മാധവും മറ്റുള്ളവരോട് പെരുമാറുന്നത് പോലെ സ്വന്തം ബന്ധുവിനോട് പ്രത്യേകിച്ചും അടുത്ത ബന്ധുവിനോട് അത്തരത്തിൽ പെരുമാറുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇനി കഥാകൃത്തിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചുവരാം ഇത്രയും ഏകപക്ഷീയവും തികച്ചും സഹാനുഭൂതിയില്ലാത്തതുമായ മറ്റൊരു കഥാകൃത്തിനെ നമുക്ക് കിട്ടില്ല പ്രൊഫസ്സർ കഥയുടെ അല്പം കൂടി സൂക്ഷ്മമായ ഒരു വായന നടത്തിയാൽ കഥാകൃത്ത് അവരോട് ഒരു തരത്തിൽ സഹതാപം കാണിക്കുന്നുണ്ട് എന്ന് കാണാം അത്തരത്തിലുള്ള ഒരു സഹതാപം ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിൽ എങ്കിലും വായിക്കാനും സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാകും എൻ്റെ കൈവശമുള്ള കഥാശേഖരത്തിലെ 18 ാം പേജിൽ നിന്ന് ഞാൻ വായിക്കട്ടെ ഇവിടെ കഥാകൃത്ത് ഇപ്രകാരം പറയുന്നു " രാവും പകലും അദ്ധ്വാനിക്കുന്ന ആളുകൾ ഈ മടിയന്മാരുടേതിനേക്കാൾ ഒട്ടും മികച്ച രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുന്നവർ അല്ല അത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ കർഷകരല്ല പകരം അവരെ ചൂഷണം ചെയ്യുന്നവരാണ് സമ്പന്നരാകുന്നത് അവിടെ ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾ വളർന്നു വരുന്നതിൽ ഒട്ടും തന്നെ ആശ്ചര്യപ്പെടേണ്ടതില്ല പ്രൊഫസ്സർ അതിനാൽ ഇവിടെ നിരവധി കാര്യങ്ങളുണ്ട് സമ്പന്നരായ ആളുകൾ ഈ തൊഴിലാളികളെയെല്ലാം ചൂഷണം ചെയ്യുന്നു എന്നാണ് കഥാകൃത്ത് സൂചിപ്പിക്കുന്നത് ഇത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ എന്തുകൊണ്ടാണ് മാധവിനും ഘിസുവിനും ഇത്തരത്തിൽ അസാധാരണമായ മാനസികാവസ്ഥകൾ ഉള്ളതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും സമൂഹത്തിൻ്റെ മേൽത്തട്ടിൽ ജീവിക്കുന്ന സമ്പന്നന്മാരിലൂടെ സമൂഹം ഇവർക്കുമേൽ നടത്തിയ തുടർച്ചയായ നീണ്ടുനിൽക്കുന്ന ആ ഒരു ചൂഷണം കാരണമാണ് അത്തരത്തിലുള്ള മാനസികാവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നത് അതിനാൽ ഈ രണ്ട് കഥാപാത്രങ്ങളിലും അവരുടെ ചുറ്റുപാടുകളിലും ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരർത്ഥത്തിൽ കഥാകൃത്തിന് സമഗ്രമായ ധാരണയുണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും പ്രൊഫസ്സർ അതിനാൽ നാം ഈ അഭിപ്രായം കൂടി മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ഇതേ ഭാഗത്തു തന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് ഞാൻ തുടർന്നു വായിക്കാം അപ്പോളും അയാൾ ആശ്വസിക്കുന്നുണ്ട് പ്രൊഫസ്സർ ഇവിടെ അയാൾ എന്നതു കൊണ്ട് അർത്ഥമാക്കുന്നത് ഘിസു എന്നു തന്നെയാണ് താൻ എത്ര മോശക്കാരനായി കണക്കാക്കപ്പെട്ടാലും സാരമില്ല മറ്റുള്ളവരെപ്പോലെ വേദനയോടെ കഠിനമായി അദ്ധ്വാനിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നും അതിനാൽ അയാളുടെ ആ ഒരു ലാളിത്യവും നിസ്സഹായതയും അനാവശ്യമായി മുതലെടുക്കാൻ മറ്റുള്ള ആളുകൾക്ക് കഴിയില്ലല്ലോ എന്ന ഒരു ആശ്വാസവും അയാൾക്ക് ഉണ്ടായിരുന്നു " പ്രൊഫസ്സർ മാധവിൻ്റേയും ഘിസുവിൻ്റേയും ലാളിത്യത്തെ അവരെ പോലെയുള്ള മറ്റ് ആളുകൾ അനാവശ്യമായി മുതലെടുക്കുകയും അവരുടെ നിസ്സഹായതയെ ഭൂവുടമ ചൂഷണം ചെയ്യുകയും ചെയ്തു എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് പ്രൊഫസ്സർ അതുകൊണ്ട് കഥാകൃത്ത് ഭൂവുടമകൾക്ക് വേണ്ടി അതായത് സമ്പന്നർക്ക് വേണ്ടി സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയില്ല നിങ്ങൾക്കറിയാം ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക ആണെങ്കിൽ നിങ്ങൾക്ക് കഥാകൃത്തിനെ ഒരിക്കലും കുറ്റം പറയുവാൻ സാധിക്കില്ല അതായത് സമൂഹത്തിൻ്റെ പ്രവർത്തനരീതികൾ എങ്ങനെയാണ് പ്രകടമാക്കപ്പെട്ടത് എങ്ങനെയാണത് പ്രകടമാകുന്നത് എന്നൊക്കെ മനസ്സിലാക്കുവാൻ ആവശ്യമായ ചലനാത്മകതയൊക്കെ കഥാകൃത്തിൻ്റെ മനസ്സിലുണ്ട് എന്നതാണ് ആ വസ്തുത ഈ രണ്ട് കഥാപാത്രങ്ങളെ ആണ് നാം കാണേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ സമൂഹത്തിൻ്റെ പരിഷ്കാരങ്ങളുടെ പരിധികൾക്കൊക്കെ പൂർണ്ണമായും പുറത്തുള്ള വ്യതിചലനങ്ങളായിട്ടാണ് ചില വിമർശകർ അവരെ കാണുന്നത് പ്രൊഫസ്സർ അതിനാൽ അവർ പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾക്കറിയാം പാർശ്വവൽക്കരിക്കപ്പെട്ട ചില വ്യക്തികളെ നിങ്ങൾ കൂടുതൽ കൂടുതൽ മുന്നോക്കം എത്താനായി ഉന്തിക്കൊടുക്കുന്തോറും അവർ തികച്ചും അപ്രതീക്ഷിതമായ രീതികളിൽ പ്രതികരിക്കാൻ തുടങ്ങും വിമർശകനായ ജെസ്സി അസ്ബറി പറഞ്ഞിട്ടുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതു പോലെ ചൂഷണത്തിന് എതിരേ അത്തരത്തിലുള്ള ഒരു തിരിച്ചടി ആയിട്ടാണ് നമുക്ക് ഇവരുടെ പെരുമാറ്റത്തെ കാണാൻ കഴിയുന്നത് അതായത് മറ്റുള്ളവരും ഭൂവുടമയും അവർക്കു മേൽ നടത്തുന്ന ചൂഷണങ്ങൾക്കെതിരേ ആ രണ്ടു വ്യക്തികളും നടത്തുന്ന വിപരീത ചൂഷണം അത് അവരുടെ പ്രിയപ്പെട്ട അവരെ പരിപാലിച്ച ബുധിയ എന്ന സ്ത്രീ കഥാപാത്രത്തിനു നേർക്കും നടത്തപ്പെടുന്നു എന്നു മാത്രം ആര്യ മാഡം പറഞ്ഞതിലേക്ക് ഈ ഒരു ആശയം കൂടി ചേർത്തു വയ്ക്കട്ടെ ഈ ഒരു ഉദ്ധരണി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു "അച്ഛനും മകനും കരഞ്ഞുകൊണ്ട് ഗ്രാമത്തിലെ ഭൂവുടമയുടെ അടുത്തേക്ക് പോയി അവരുടെ മുഖഭാവത്തോടു പോലും അയാൾക്ക് വെറുപ്പായിരുന്നു മോഷണം നടത്തിയതിനും വാഗ്ദാനം ചെയ്തതുപോലെ അവർ ജോലിക്ക് വരാത്തതിനും ഒക്കെ അയാൾ പലതവണ അവരെ സ്വന്തം കൈകൊണ്ട് അടിച്ചിട്ടുമുണ്ട് ആര്യ അപ്പോൾ ഈ സംഭവത്തിൽ നിന്ന് ജന്മിത്ത സമ്പ്രദായത്തെ സ്ഥാപിച്ചെടുക്കുക എന്നത് മൂടുപടം എന്ന കഥയിൽ എങ്ങനെയാണ് പ്രകടമാകുന്നത് പ്രൊഫസ്സർ ഭൂവുടമ ചില തത്ത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളാണെന്ന വിവരണം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഇക്കാര്യം വളരെ വ്യക്തവുമാണ് പ്രൊഫസ്സർ ഘിസുവും മാധവും ഭൂവുടമയുടെ അടുത്ത് ചെന്ന് പണം ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിനെ ഈ കഥയിലെ തന്നെ മറ്റൊരു സംഭവവുമായി ബന്ധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കൈവശമുള്ള പുസ്തകത്തിലെ 17 ാം പേജിൽ അയാൾ അതായത് ഘിസു ഇപ്രകാരം പറയുന്നു " ഏമാനേ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു കഷ്ണം ബ്രെഡ് നൽകാൻ പോലും ആരുമില്ല ഞങ്ങൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ വീട് വേരോടെ പിഴുതെറിയപ്പെട്ടിരിക്കുന്നു ഞാൻ താങ്കളുടെ അടിമയാണ് അവളുടെ ശവസംസ്കാരം സംഘടിപ്പിക്കാൻ താങ്കങ്ങളല്ലാതെ മറ്റാരുമില്ല പ്രൊഫസ്സർ അങ്ങനെ എത്ര തല്ലിച്ചതച്ചാലും കുത്തുവാക്കുകളും ശകാരവും ഒക്കെ ഉണ്ടായാലും ഈ അനീതികളൊക്കെ ഉണ്ടായാലും സമൂഹത്തിൻ്റേതായ ചില മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആ ഭൂവുടമ തന്നെയാണ് എന്ന് നിങ്ങൾക്കുമറിയാം അങ്ങനെ തീർത്തും പണമില്ലാത്ത ഈ മനുഷ്യർക്ക് വേണ്ടി ശവസംസ്കാരം സംഘടിപ്പിക്കേണ്ടത് അയാളാണ് അതിനാൽ അയാൾ പണം വാഗ്ദാനം ചെയ്തില്ലെങ്കിൽ ആ ശവസംസ്കാരം എങ്ങനെ നടക്കാനാണ് അതും ചടങ്ങുകൾ ആ ദിനാന്ത്യത്തിൽ തന്നെ ചെയ്യുകയും വേണം അതിനാൽ ഘിസു മാധവ് എന്നീ ഈ രണ്ട് കഥാപാത്രങ്ങളുടെ അമിത ധൈര്യത്തെ അയാൾ വെറുക്കുന്നു എങ്കിലും അവർക്ക് പണം എറിഞ്ഞു കൊടുത്ത് അവരെ തൻ്റെ കൺമുന്നിൽ നിന്നും ഒഴിവാക്കുകയാണ് അയാൾ ചെയ്തത് പ്രൊഫസ്സർ അതിനാൽ അയാൾക്ക് ഒരു പ്രത്യേക സാമൂഹ്യ ക്രമം ശക്തിപ്പെടുത്തണം ഭൂവുടമ അത് ചെയ്യുകയും ചെയ്യുന്നു അവൻ ഗ്രാമത്തിലെ ആളുകളുടെ രക്ഷിതാവ് അഥവാ രക്ഷാധികാരിയാണ് അങ്ങനെ അവിടെ ആ ജന്മിത്ത സമ്പ്രദായവുമായുള്ള ബന്ധം ദൃഢമാകുന്നു ആര്യ മാഡം പുരുഷാധിപത്യം നിലനിൽക്കുന്ന ഒരു സമൂഹത്താൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് സ്ത്രീകൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ചിത്രത്തെ വിശ്വസനീയമായി വരച്ചു കാട്ടുന്ന ഒന്നാണ് മൂടുപടം എന്ന ഈ കഥ താങ്കൾ ഈയൊരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ പ്രൊഫസ്സർ ശരിയാണ് ബുധിയ ചൂഷണം ചെയ്യപ്പെട്ടു അത് വളരെ വ്യക്തമാണ് അവൾ ആ പുരുഷാധിപത്യ പ്രവണത ഉള്ള പുരുഷ മേധാവിത്വ സമ്പ്രദായത്തിൻ്റെ പരിധിയിലാണ് കാരണം ഈ പുരുഷന്മാർക്ക് ജോലി ചെയ്യാനും ജീവിതം പുലർത്താനും ഒക്കെയുള്ള കഴിവുണ്ട് പക്ഷേ അവർ അത് സുസ്ഥിരമായ രീതിയിൽ അച്ചടക്കത്തോടെ ചെയ്യാൻ വിസമ്മതിക്കുന്നു ഒരു വർഷം മുമ്പ് മാത്രം ആ കുടുംബത്തിലേക്ക് അംഗമായി കടന്നു വന്ന ബുധിയ എന്ന പാവപ്പെട്ട സ്ത്രീയ്ക്ക് ആ കുടുംബത്തെ പുലർത്താനായി അവൾക്ക് ദിവസേന വീട്ടിൽ നിന്ന് പുറത്തു പോയി ജോലി ചെയ്യേണ്ടതായി വരുന്നു നാണം കെട്ട വയറുകളിൽ ചിലത് എന്നാണ് കഥാകൃത്ത് ആ പുരുഷന്മാരെ വിശേഷിപ്പിക്കുന്നത് അതിനാൽ അവൾക്ക് ഈ പുരുഷന്മാരെ സേവിക്കണം കാരണം അത് അവളുടെ ജീവിതത്തിലെ ഒരു ജോലി ആയിപ്പോയി അവൾ അത് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു അതാണ് അവളുടെ ജീവിതത്തിലെ സ്ഥാനം അതിനാൽ അത്തരം സ്ഥാനനിർണ്ണയം അവൾക്ക് ദോഷകരമാണ് അവൾക്ക് ഒന്നും തന്നെ തിരികെ ലഭിക്കുന്നില്ല നിങ്ങൾക്കറിയാം പുരുഷാധിപത്യ സമൂഹത്തിൽ ഒരു കുടുംബത്തിലെ പുരുഷ അംഗങ്ങളാണ് സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് എന്നാൽ ആ കടമയിൽ അവർ പരാജയപ്പെടുന്നു ഇതും ശ്രദ്ധിക്കേണ്ടതു തന്നെയാണ് ഈ ഒരു സംഗതി നിരീക്ഷിക്കേണ്ടതും ആണ് പ്രൊഫസ്സർ അതിനാൽ ഭൂവുടമ അയാളുടെ അടിമയെ അടിക്കുകയാണ് എന്ന് കരുതുക ജന്മിയേപോലെ അടിമകളെ അടിക്കുകയും അവരുടെ അദ്ധ്വാനത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ അവരെ പരിപാലിക്കുവാനുള്ള ബാധ്യതയും അയാൾക്ക് തന്നെ ആണ് അവർക്ക് ഭക്ഷണം കൊടുക്കണം ആ വ്യക്തിയുടെ വീടിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ശവസംസ്കാര ചടങ്ങുകൾ ഭൂവുടമ വഹിക്കണം അതുകൊണ്ടാണ് ആ ജോലി അതായത് സ്വന്തം വീട്ടിലെ സ്ത്രീയെ സംരക്ഷിക്കുന്ന ആ ജോലി ഘിസുവും മാധവും നിരസിച്ചത് അതിനാൽ കുടുംബത്തിൻ്റെ ചിലവുകൾക്ക് വേണ്ടി ബുധിയ അവളുടേതായ സംഭാവന നൽകുന്നു പക്ഷേ അതിനു പകരമായി അവൾക്ക് ഒന്നും തന്നെ തിരികെ ലഭിക്കുന്നില്ല അത് അവളെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി അളവിലുള്ള തിരിച്ചടി പോലെയാണ് ആര്യ കൂടാതെ ഞാൻ മനസ്സിലാക്കുന്നത് എന്തെന്നാൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ ജാതീയതയുടെ അതിക്രമങ്ങൾക്ക് കൂടുതൽ വിധേയരാകുന്നത് സ്ത്രീകളാണ് എന്നാണ് അതിനാൽ കാലങ്ങളായി കഷ്ടത അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും പ്രതിനിധിയാണ് അവൾ എന്നു ഞാൻ കരുതുന്നു പ്രൊഫസ്സർ അവൾ ഏറ്റവും താഴെയുള്ളവളാണ് ഈ രണ്ട് പുരുഷന്മാർക്കും അവൾ ഒരു അടിമയാണ് ഈ രണ്ട് പുരുഷന്മാർ തങ്ങൾക്ക് മുകളിലുള്ള മറ്റുള്ളവർക്ക് അടിമകളായിരിക്കുന്നതുപോലെ വ്യക്തമായും സാമൂഹിക ഉച്ചനീചത്വങ്ങൾ അടിസ്ഥാനമാക്കി ഏറ്റവും താഴെയുള്ളയാൾക്ക് ഉയർന്നവരിൽ നിന്ന് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ശരിക്കും മോശമായി തന്നെ ലഭിക്കുമെന്ന് നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ ആര്യ ബുധിയയുടെ അവസ്ഥ പരിശോധിക്കാൻ കുടിലിൻ്റെ ഉള്ളിലേക്ക് പോകാൻ മാധവ് മടിച്ചു കാരണം തൻ്റെ ഉരുളക്കിഴങ്ങ് നഷ്ടപ്പെടുമെന്നും അച്ഛൻ അത് അടിച്ചെടുക്കുമെന്നും അവൻ ഭയപ്പെട്ടു അപ്പോൾ വയറു നിറയ്ക്കാൻ കഷ്ടപ്പെടുന്ന ഒരു താഴ്ന്ന ജാതിക്കാരന് സ്വന്തം ഉപജീവനം തന്നെയാണ് മറ്റെന്തിനേക്കാളും പ്രധാനം എന്ന വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഉദാഹരണമാണോ ഇത് പ്രൊഫസ്സർ എൻ്റെ വായനയുടെ അടിസ്ഥാനത്തിൽ കഥയെക്കുറിച്ചുള്ള വീക്ഷണം അനുസരിച്ച് ഭക്ഷണം എന്നത് സുപ്രധാനമായ ഒരു സ്ഥാനമുള്ളത് എന്ന അർത്ഥത്തിൽ കഥയുടെ ഹൃദയഭാഗത്തുള്ളതാണ് എന്നു പറയാം നിങ്ങൾക്കറിയാം മാന്യമായ ഭക്ഷണം കഴിക്കുന്നതിനോടുള്ള അഭിനിവേശം തങ്ങൾക്ക് ലഭ്യമായ ഭക്ഷണം ആസ്വദിക്കാനുള്ള ആസക്തി എന്നിവയാണ് ഈയൊരു കഥയുടെ കാതൽ അതായത് ഞാൻ മുമ്പുള്ള പ്രഭാഷണങ്ങളിൽ സൂചിപ്പിച്ചതു പോലെ ഇതിൻ്റെ ആഖ്യാന രീതി തന്നെ ഒരു തരത്തിൽ ഭക്ഷണത്തോടുള്ള ഭ്രമത്തെ ആസ്പദമാക്കി ഉള്ളതാണ് നിങ്ങൾ ഈ കഥയിൽ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ വർഷങ്ങൾക്കു മുമ്പ് നടന്ന ഒരു വിവാഹ വിരുന്നിനെക്കുറിച്ച് വിപുലീകരിക്കപ്പെട്ട ഒരു വലിയ വിവരണം നിങ്ങൾക്കു കാണുവാൻ സാധിക്കും നിങ്ങൾക്കറിയാം ഒരു ഭൂവുടമയുടെ മകളുടെ വിവാഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനോട് ബന്ധപ്പെട്ടുള്ള വിവിധ തരം ആഡംബരങ്ങളെ പറ്റി വിവരിക്കുന്ന ഭാഗത്ത് അത് ദൃശ്യമാക്കപ്പെടുന്നു കൂടാതെ ചട്ട്ണി റൈത്ത പൂരികൾ ഘിസു കഴിച്ച പൂരികളുടെ എണ്ണം തുടങ്ങിയവയെ കുറിച്ചുള്ള വിശദാംശങ്ങളെല്ലാം ആ വിവരണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ താൻ കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം കഴിക്കുമായിരുന്നുവെന്ന് മാധവ് തൻ്റെ ഭാവനയിൽ കാണാൻ ശ്രമിക്കുന്നുമുണ്ട് പ്രൊഫസ്സർ ഇവയെല്ലാം അതായത് ഭക്ഷണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എല്ലാം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈയൊരു കഥയിലെ ഈയൊരു വിവരണത്തിൻ്റെ ധർമ്മം എന്താണെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു എന്നതാണ് ഇവിടെ അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം ഉണ്ട് കാരണം ഈ രണ്ട് പുരുഷന്മാരും പട്ടിണി കിടക്കുന്നവരാണ് മാത്രമല്ല അവർ ഈയൊരു ദിവസമോ കഴിഞ്ഞ ഒരു ആഴ്ചയോ കഴിഞ്ഞ ഒരു മാസമോ മാത്രമല്ല അവർ രണ്ടു പേരും ഒരുമിച്ച് വർഷങ്ങളോളം പട്ടിണി കിടക്കുന്നവരാണ് അതായത് വർഷങ്ങളോളം ഒരുമിച്ച് അതിനാൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് കിഴങ്ങു കൊണ്ടുള്ള അവരുടെ ഭക്ഷണം പോലും പേരിനു മാത്രമുള്ളതാണ് ജീവിതത്തിൽ അവർക്ക് കഴിക്കുവാൻ സാധിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളെയും കുറിച്ചുള്ള വിശദമായ വിവരണം ആണ് നമുക്ക് ഈ കഥയിൽ ലഭിക്കുന്നത് പ്രൊഫസ്സർ എൻ്റെ പ്രഭാഷണത്തിലും ഞാൻ അത് ചർച്ച ചെയ്തു "കിഴങ്ങിൻ്റെ തൊലി കളയുമ്പോൾ ആ കിഴങ്ങിൻ്റെ പുറം ഭാഗം അത്ര ചൂടുള്ളതായി തോന്നിയില്ല പക്ഷേ അത് കടിച്ച ഉടനെ ഉള്ളിൽ പൊള്ളൽ ഉണ്ടാക്കി" പ്രൊഫസ്സർ എന്ന് കഥാകാരൻ പറയുന്നു അവരുടെ നാവും തൊണ്ടയും അണ്ണാക്കും പൊള്ളുന്നു കത്തുന്ന കൽക്കരി പോലെ ചുട്ടുപഴുത്ത കിഴങ്ങ് ആർത്തിയോടെ വിഴുങ്ങുമ്പോൾ അത് വായിൽ പറ്റി പിടിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് വയറ്റിൽ എത്തി തണുക്കാൻ അനുവദിക്കുന്നതാണത്രേ അതിനാൽ അത് കഴിയുന്നത്ര വേഗത്തിൽ തൊണ്ട തൊടാതെ ഇറക്കുന്നതാണത്രേ അവരുടെ ബുദ്ധി എന്നാണ് പരിഹാസ രൂപേണ കഥാകൃത്ത് പറയുന്നത് പ്രൊഫസ്സർ അതിനാൽ ഭക്ഷണത്തെ കത്തിയെരിയുന്ന കൽക്കരിയുമായി താരതമ്യപ്പെടുത്തുന്നു ഈ മനുഷ്യർ അതിനെ വളരെ ആക്രാന്തത്തോടെ വേഗത്തിൽ വിഴുങ്ങുന്നു കൽക്കരി അതായത് എരിയുന്ന കൽക്കരിയുടെ കഷണങ്ങൾ വയറ്റിൽ ചെന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്കറിയാം അത് അവരുടെ വയറ്റിലേക്ക് ഇറക്കുമ്പോൾ അങ്ങനേ അത് ഉള്ളിൽ കിടന്ന് തണുക്കുന്നു എന്നാണ് കഥാകൃത്ത് വിവരിക്കുന്നത് അതിനാൽ ചില കാര്യങ്ങൾ വച്ചു നോക്കിയാൽ ഇത് വേദനാജനകമായ ഒരു പ്രക്രിയയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിനാൽ ഇത് അവർക്ക് മാത്രമല്ല വേദന ഉണ്ടാക്കുന്നത് അവർ ഭക്ഷണം നേടിയെടുക്കുന്നതും അതിനു ശേഷം അത് ഭക്ഷിക്കുന്നതുമായ പ്രക്രിയകൾ അവരുടെ ചുറ്റുമുള്ള അനവധി ആളുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വേട്ടക്കാരെ പോലെ അസ്ഥിരമായ രീതിയിൽ ഭക്ഷണം തേടുന്ന അവരുടെ രീതി ഗുരുതരമായി ബാധിക്കുന്നത് ബുധിയയെയാണ് അവർ കിഴങ്ങുകൾ ശേഖരിക്കുന്നു അത് വേവിച്ചെന്നു വരുത്തി കുടിലിനുള്ളിൽ തളർന്നിരിക്കുന്ന സ്ത്രീയെ ഒന്നു ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവർ അത് കഴിക്കുകയും ചെയ്യുന്നു ആര്യ മാഡം ഭൂവുടമയുടെ മകളുടെ വിവാഹത്തെ വിവരിക്കുന്ന ഇത്തരമൊരു വ്യതിചലനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ പോലും ചിന്തിച്ചിരുന്നു പക്ഷേ അത് ബുധിയയും മാധവും തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തിന് നേർ വിപരീതമായി ഞാൻ കരുതുന്നു കാരണം ഒരു വശത്ത് വളരെ ആഡംബരമായി വിവാഹം കഴിച്ച പെൺകുട്ടികളെ നമുക്കു കാണാം അവർ എല്ലാം ആസ്വദിക്കുന്നു അപ്പോൾ അത് ബുധിയയുടേയും മാധവിൻ്റേയും ബന്ധത്തിന് വിപരീതമാണെന്ന് പറയാമോ പ്രൊഫസ്സർ ഇവിടെ ആര്യ അങ്ങനെ പറഞ്ഞത് വളരെ രസകരമാണ് പക്ഷേ വ്യതിചലനത്തെക്കുറിച്ചുള്ള ആശയത്തെക്കുറിച്ച് ആര്യ ആദ്യം പറഞ്ഞ കാര്യത്തെ ഞാൻ അഭിസംബോധന ചെയ്യട്ടെ അതായത് എൻ്റെ വായനയിൽ ഇത് ഒരു വ്യതിചലനമായിട്ടല്ല തോന്നിയിട്ടുള്ളത് മറിച്ച് ഇത് കഥയുടെ ഏതാണ്ട് ഒരു കേന്ദ്രമാണ് എന്നു പറയാം ഘിസുവിന് മുമ്പ് ലഭിച്ച ഒരു സദ്യയെക്കുറിച്ചുള്ള ഈയൊരു വിവരണമാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ അതേപോലൊരു ഭക്ഷണം കഴിക്കാനുള്ള അയാളുടെ ആഗ്രഹത്തെ വെളിവാക്കുന്നത് പ്രൊഫസ്സർ ബുധിയ ഈ രണ്ട് പുരുഷന്മാർക്കും വേണ്ടി അത്തരത്തിൽ ഒരു അവസരം സാധ്യമാക്കി കൊടുക്കുന്നു ഘിസു ആ സംഭവത്തെപ്പറ്റി പറയുമ്പോൾ കഥയിൽ ഇത്തരത്തിൽ ഒരു നിമിഷമുണ്ട് അതായത് കഥയുടെ അന്ത്യഭാഗത്തോട് അടുപ്പിച്ച് മാധവ് അതേപ്പറ്റി പറയുമ്പോൾ ഘിസു മറുപടിയായി ഇതു പറയുന്നുണ്ട് കഥയിലെ ഈയൊരു ഭാഗം ശ്രദ്ധിക്കൂ ഘിസു പതിയെ എഴുന്നേറ്റു നിന്നു ഭക്ഷണം ബാറിന് പുറത്തുണ്ട് എന്ന് അയാൾ പറയുന്നു അവർ ഇപ്പോൾ ബാറിൻ്റെ ഉള്ളിലാണ് അവർ ആവോളം തിന്നുന്നു മദ്യം കുടിക്കുന്നു ആഹ്ളാദഭരിതനായി ഘിസു എഴുന്നേറ്റു നിൽക്കുന്നു സന്തോഷത്തിൻ്റെ തിരമാലകൾക്കിടയിലൂടെ നീന്തി നീന്തി സ്വർഗത്തിലേക്ക് പോകുകയാണെന്ന് അയാൾക്ക് അപ്പോൾ തോന്നി അപ്പോൾ മകൻ പറഞ്ഞു അവൾ ആരെയും ശല്യപ്പെടുത്തിയിട്ടില്ല ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഈ ആഗ്രഹം അവൾ അവളുടെ മരണത്തിലൂടെ നിറവേറ്റി തരികയും ചെയ്തു പ്രൊഫസ്സർ ബുധിയ മരിച്ചതിൻ്റെ പേരിൽ അവർക്ക് പണം ലഭിക്കുകയും കൂടി ചെയ്യുന്നതിലൂടെ മദ്യം ആസ്വദിക്കാനും വറുത്ത മത്സ്യം ആസ്വദിക്കാനും അവർക്ക് സാധിച്ചു അവർ കഴിച്ച ഈ സാധനങ്ങളെല്ലാം ആസ്വദിക്കാനും അവർക്ക് സാധിച്ചു ഇതിലേക്കാണ് കഥ നീങ്ങുന്നത് അവർ ഉരുളക്കിഴങ്ങു ഭക്ഷണത്തിൽ നിന്ന് ആരംഭിച്ച നിമിഷം മുതൽ താൻ വർഷങ്ങൾക്കുമുമ്പ് കഴിച്ച ആ ഭക്ഷണത്തെക്കുറിച്ച് ഘിസു സങ്കൽപ്പിക്കുന്നത് വരെ അതിൽ നിന്നും തുടങ്ങി കഥയുടെ അവസാനം അവർ കഴിക്കുന്ന ഈ വലിയ ഭക്ഷണത്തെക്കുറിച്ച് വിവരിക്കുന്നതു വരെ അതിനാൽ നിങ്ങൾ ഇത് വളരെ അടുത്ത് വായിച്ചാൽ ഇവയെല്ലാം തമ്മിൽ നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നു കാണാം അതുകൊണ്ട് ഭക്ഷണം എന്നത് ഈയൊരു കഥയുടെ ഒരു വലിയ ഭാഗം തന്നെയാണ് ആര്യ എന്നോട് ചോദിക്കാൻ ആഗ്രഹിച്ച മറ്റൊരു ചോദ്യം ബന്ധത്തെക്കുറിച്ചാണ് അതായത് മാധവും ബുധിയയും തമ്മിലുള്ള ദാമ്പത്യ ബന്ധവും പരാമർശിച്ച മറ്റൊരു വിവാഹവും തമ്മിലുള്ള താരതമ്യം അതേപ്പറ്റി പരിശോധിച്ചാൽ കഴിഞ്ഞ ഒരു വർഷക്കാലം മാധവ് അവളോടൊപ്പം ഒരു നല്ല സമയം ചെലവഴിച്ചുവെന്ന് ഘിസു പറയുന്ന ആ അഭിപ്രായമല്ലാതെ നമുക്ക് അതേപ്പറ്റി കൂടുതലൊന്നും അറിയില്ല അതിനാൽ അത്തരത്തിൽ ഒരു സൂചന ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ അവരുടെ ബന്ധത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല ലൈംഗികമായ അർത്ഥത്തിൽ മാധവിന് അത് ശരിക്കും ആഹ്ളാദകരമായിരുന്നു എന്നായിരിക്കണം ഘിസു ഉദ്ദേശിച്ചത് അതാണ് നമുക്കുള്ള ഒരു സൂചന പ്രൊഫസ്സർ കഥയിലെ മറ്റൊരു വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള സത്കാരം എന്നത് സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും പരാമർശമാണ് ആ ആഡംബരം ഗ്രാമത്തിലെ മറ്റുള്ളവരുമായി പങ്കിടാനുള്ള ശക്തിയും ഔദാര്യവുമാണ് അക്കാലത്ത് ജന്മികൾ വിശാലമായ ഹൃദയമുള്ളവർ ആയിരുന്നുവെന്ന് ഘിസു പറയുന്നുണ്ട് അവർ ഗ്രാമത്തിലെ മറ്റ് സമൂഹങ്ങളുമായി ഒത്തു ചേരുകയും ഒരു തരത്തിൽ ഹൃദയം പങ്കിടുകയും ചെയ്തിരുന്നു എന്നാൽ ഇക്കാലത്ത് ഭൂവുടമകൾ അത് ചെയ്യുന്നില്ല അവർ വളരെ പിശുക്കന്മാരാണ് അവർ ചെലവഴിക്കുന്നില്ല അവർ വളരെ മിതവ്യയം ശീലിച്ച ദുഷ്ടന്മാരാണ് പക്ഷേ ഇത്തരം ഒരു അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നതിൽ നിന്നും ഇവിടെ പരാമർശിച്ച പെൺകുട്ടിയുടെ വളരെ വിപുലമായ രീതിയിലുള്ള ഒരു കല്യാണത്തിലേക്കും അതിൽ നിന്നും അവളുടെ വളരെ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതത്തിലേക്കും വ്യതിചലിക്കുന്ന തരത്തിലുള്ള ആഖ്യാനം കഥയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെയാണ് എന്നു നിങ്ങൾക്കറിയാം കാരണം അത് വളരെ സങ്കീർണ്ണമാണ് ഈ കോഴ്സിൽ നമ്മൾ വായിച്ച പല കഥകളിലേയും കഥാപാത്രങ്ങൾക്ക് സന്തോഷകരമായ ഭവനങ്ങളോ സന്തോഷകരമായ ദാമ്പത്യമോ ഇല്ല അവയിൽ പലതും പ്രവർത്തനരഹിതവുമാണ് കുറഞ്ഞത് അവ സാഹിത്യത്തിൽ പ്രതിനിധീകരിക്കപ്പെടുമ്പോൾ എങ്കിലും അതിനാൽ വിപുലമായ രീതിയിലുള്ള വിവാഹങ്ങൾക്കും സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്കും ഇടയിൽ വലിയ ഒരു അകലമുണ്ടെന്ന് ഞാൻ കരുതുന്നു ആര്യ മൂടുപടം എന്ന കഥയിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം കർഷകരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഘിസു കൂടുതൽ ഉൾക്കാഴ്ചയുള്ള ആളായിരുന്നു എന്നും ബുദ്ധിശൂന്യരായ കർഷകരുടെ കൂട്ടത്തിൽ ചേരുന്നതിനു പകരം അയാൾ എല്ലായ്പ്പോളും വിമർശനങ്ങൾ നടത്തുന്ന കൌശലക്കാരുടെ കൂട്ടത്തിൽ ചേർന്നുവെന്നും നമുക്കു പറയാം ആര്യ അതിനാൽ ഇവിടെ ഘിസുവിൻ്റെയും മാധവിൻ്റേയും കഥാപാത്രങ്ങളിലൂടെ മറ്റുള്ളവരുടെ അദ്ധ്വാനത്തിൽ ജീവിക്കുന്ന കൌശലക്കാരുടെ ലോകത്തിൻ്റേതായ മറ്റൊരു യാഥാർത്ഥ്യത്തെ ഈ കഥ അവതരിപ്പിക്കുന്നുണ്ടോ പ്രൊഫസ്സർ ഈ കഥയിൽ നമുക്ക് ലഭിക്കുന്ന വളരെ വളരെ രസകരമായ ഒരു ആശയം ആര്യ പറഞ്ഞതിൽ ഉണ്ട് എൻ്റെ വിവർത്തനം ഞാൻ ഇവിടെ വായിക്കട്ടെ കഥാകൃത്ത് പറഞ്ഞതിന് മുമ്പ് ഞാൻ വായിച്ച ആ പ്രത്യേക വിവരണം ശ്രദ്ധിക്കൂ കർഷകരേക്കാൾ മിടുക്കനായിരുന്നു ഘിസു എന്നു നമുക്ക് കണക്കാക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സാങ്കൽപ്പികമായി നമുക്ക് അതേക്കുറിച്ച് പറയാം കഥാകൃത്ത് പറയുന്നത് ലളിതമായ ചിന്താഗതിക്കാരായ കർഷകരോടൊപ്പം ചേരുന്നതിനു പകരം അയാൾക്ക് ആളുകളെ പറഞ്ഞു പറ്റിച്ച് ജീവിക്കുന്ന തട്ടിപ്പുകാരുടെ കൂട്ടത്തിൽ ചേരാമായിരുന്നു അയാൾ ഏതെങ്കിലും തട്ടിപ്പുകാരുടെ കൂട്ടത്തിൽ ചേർന്നിരുന്നെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ തലവനോ ഭൂവുടമയോ ഒക്കെ ആയിത്തീരാൻ അയാൾക്ക് സാധിക്കുമായിരുന്നു പ്രൊഫസ്സർ അതിനാൽ ഈ തലവൻമാരും ഗ്രാമങ്ങളിലെ നേതാക്കന്മാരും എങ്ങനെയെങ്കിലും ഒക്കെ ആ സ്ഥാനത്ത് എത്തിയവരാണ് എന്നും നിങ്ങൾക്ക് അറിയാവുന്നതു പോലെ അവർ കൌശലക്കാരും കുറ്റവാളികളും ആണെന്നും അത്രയ്ക്ക് മാന്യന്മാരൊന്നും അല്ല എന്നുമുള്ള ഒരു സൂചന കൂടി ഇവിടെ ഉണ്ട് പ്രൊഫസ്സർ അത്തരത്തിൽ ഉള്ള ഒരു കൂട്ടുകെട്ട് അവിടെയുണ്ട് എന്നു നമുക്ക് കാണാം അത് കഥാകൃത്തിനെ രസകരമായ രീതിയിൽത്തന്നെ പ്രതിഫലിപ്പിക്കുന്നു ആ ഗ്രാമത്തിലെ എല്ലാ നേതാക്കന്മാരേയും വലിയ വലിയ ആൾക്കാരേയും ഗ്രാമത്തിലെ വൻ തോക്കുകളേയും കുറിച്ചുള്ള ശരിയായ ധാരണ അയാൾക്കുണ്ട് ഘിസു മിടുക്കനാണ് മിടുമിടുക്കനാണ് പക്ഷേ അയാൾ ഒരു തട്ടിപ്പുകാരനാകാൻ വേണ്ടത്ര അച്ചടക്കം പാലിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് ഒരു തട്ടിപ്പുകാരനാകണമെങ്കിൽ നിങ്ങളുടേതായ ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ പിന്തുടരേണ്ടതുണ്ട് അവ എത്ര മോശമാണ് എങ്കിലും ആ നിയമങ്ങൾ നിങ്ങൾ സ്വയം കർശനമായി പാലിക്കേണ്ടതുണ്ട് എന്നാൽ ഘിസു അത് ചെയ്യുന്നില്ല പ്രൊഫസ്സർ അതുകൊണ്ട് ഘിസുവിൻ്റെ പ്രശ്നവും അതു തന്നെയാണ് എന്ന് കഥാകൃത്ത് പറയുന്നു അതിനാൽ ഈ കഥയുടെ കാലഘട്ടം കൂടി ഓർക്കേണ്ടതുണ്ട് ഇത് 1935 ൽ പ്രസിദ്ധീകരിച്ചതാണ് അല്ലേ അതായത് ഭാരതം അപ്പോഴും ബ്രിട്ടീഷ് ഭരണത്തിലാണ് അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഇത് വായിച്ചപ്പോൾ അത് എന്നെ വളരെയേറെ സ്വാധീനിക്കുകയുണ്ടായി ഒരുപക്ഷേ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ നിയമങ്ങളെയും ചട്ടങ്ങളെയും കുറിച്ചുള്ള പരാമർശം നിങ്ങൾക്കറിയാം ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുമായോ വിക്ടോറിയൻ സാമ്രാജ്യവുമായോ ഉള്ള ബന്ധമാണോ എന്നുള്ളതും നിങ്ങൾക്ക് അറിയാം ഈ നാട്ടിൽ വന്ന് ജനങ്ങളെ കബളിപ്പിച്ച കള്ളന്മാരും കൌശലക്കാരും ഒക്കെയായിരുന്ന അവർക്കെല്ലാം എതിരേയുള്ള ഒരു തരം അട്ടിമറിയുടെ സ്വഭാവമുള്ള പരാമർശം ഇവിടെയും ഉണ്ടായേക്കാം അതുകൊണ്ട് അത്തരത്തിലുള്ള ചില സൂചനകളും ഇവിടെ ഉണ്ട് ചരിത്ര സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും അൽപ്പം കൂടി അടുത്ത് വായിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു ആര്യ സൂക്ഷ്മമായ വായനയ്ക്കുള്ള സാധ്യത ഇത് യഥാർത്ഥത്തിൽ നൽകുന്നുണ്ട് മാത്രമല്ല ഇവിടെ ധാരാളം ആക്ഷേപഹാസ്യ പരാമർശങ്ങളുമുണ്ട് പ്രൊഫസ്സർ തീർച്ചയായും അതുകൊണ്ടു തന്നെയാണ് ഈയൊരു കഥ കഴിയുമെങ്കിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണ വായിക്കുന്നതാണ് നല്ലത് എന്നു ഞാൻ അർത്ഥമാക്കിയത് ഒരു പക്ഷേ സ്വഭാവരൂപീകരണം പ്രേരണകൾ എന്നിവയെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന ഒരു തോന്നൽ ഉണ്ടായേക്കാം അപ്പോൾ സാമൂഹ്യശാസ്ത്രത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് അറിയാവുന്ന തരത്തിൽ മറ്റ് അനുബന്ധ രേഖകളിലേക്ക് പോകുന്നതാണ് നല്ലത് അവ ശേഖരിച്ച് മൊത്തത്തിൽ സൂക്ഷിക്കുക അവയിൽ നിന്നും ചില ശക്തമായ വ്യാഖ്യാനങ്ങൾ രൂപപ്പെടുത്താൻ നിങ്ങൾക്കു സാധിക്കും ഒരു നല്ല കുറ്റാന്വേഷകൻ ഒരു കേസ് അന്വേഷിക്കുന്നതു പോലെ ഉള്ള ഒരു പ്രവർത്തനമാണ് ഇത് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ആര്യ ബുധിയയുടെ അയൽവാസികളെ ശ്രദ്ധിക്കൂ അവൾ പ്രസവവേദനയിൽ വലയുമ്പോൾ അവർ ആരും തന്നെ ഇല്ലായിരുന്നു പക്ഷേ അവൾ മരിക്കുമ്പോൾ അവർ ഉടനെ തന്നെ ഓടിയെത്തുകയും അവളെ ഓർത്ത് കരയുകയും ചെയ്യുന്നു അപ്പോൾ ഈയൊരു സംഭവം ആ ഗ്രാമവാസികളുടെ കാപട്യത്തെ ആണോ ചൂണ്ടിക്കാണിക്കുന്നത് പ്രൊഫസ്സർ ഇത് എൻ്റെ പ്രഭാഷണ വീഡിയോകളിൽ ഞാൻ വീണ്ടും വീണ്ടും അഭിസംബോധന ചെയ്ത ഒരു വിഷയമാണ് എന്തു പറയാനാണ് ഈയൊരു കഥയുടെ ഇഴകളുടെ വിന്യാസത്തിൽ ഒരു തരം പിശക് പ്രേംചന്ദിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചതാണോ ആ സംഭാഷണങ്ങളും കഥാകൃത്തിൻ്റേതായ വീക്ഷണങ്ങളും അദ്ദേഹം എഴുതിയത് വേണ്ടത്ര ശ്രദ്ധിക്കാതെ ആയിരുന്നോ അതോ അദ്ദേഹം മനഃപൂർവം ആ ഗ്രാമീണരെ കാപട്യമുള്ളവർ ആയി അവതരിപ്പിക്കുക ആയിരുന്നോ പ്രൊഫസ്സർ അതൊരു വലിയ ചോദ്യമാണ് കാരണം ഗ്രാമവാസികൾ ബുധിയയുടെ നിലവിളി കേട്ട് അവളോട് പ്രതികരിച്ചില്ലെങ്കിൽ അവർ ശരിക്കും ക്രൂരരും കഠിനഹൃദയമുള്ളവരുമാണ് ഗ്രാമവാസികൾ വളരെ മോശമായ വെളിച്ചത്തലാണ് ഇറങ്ങിവരുന്നത് ഒരു ഘട്ടത്തിൽ ആഖ്യാതാവ് അത് എടുത്തു പറയുകയും ചെയ്യുന്നു ഇപ്പോൾ അതായത് ബുധിയ മരിച്ചപ്പോൾ അതു വരെ വരാത്ത പണം വരുന്നു എന്ന വസ്തുതയും കഥയിൽ പരാമർശിക്കുന്നു പക്ഷേ നേരത്തെ പണം വന്നില്ല പണം നേരത്തെ ലഭ്യമായിരുന്നു എങ്കിൽ ഒരുപക്ഷേ അതു ചെലവഴിച്ച് മരുന്ന് വാങ്ങി ബുധിയയ്ക്ക് നൽകാമായിരുന്നു എന്നാൽ ആളുകൾ പണം നൽകിയിരുന്നു എങ്കിൽ പോലും ആ പണം ഉപയോഗിച്ച് ഘിസുവും മാധവും ബുധിയയ്ക്ക് മരുന്ന് വാങ്ങി നൽകുമായിരുന്നോ എന്ന വിധത്തിലുള്ള മറ്റ് ചില ചോദ്യങ്ങളും ഉയരുന്നുണ്ട് അവർ രണ്ടു പേരും കഥയുടെ അവസാന ഘട്ടത്തിൽ ചെയ്യുന്നതു പോലെ പട്ടണത്തിലുള്ള ആ മദ്യശാലകളിൽ പോയി അവിടെ സുഖിച്ചു കഴിയുമായിരുന്നെന്ന് നമുക്ക് ന്യായമായും ചിന്തിക്കാം അതിനാൽ ഇതൊരു സങ്കീർണ്ണമായ പ്രശ്നമാണെങ്കിൽ ഈ കഥയുടെ ഞാൻ അവതരിപ്പിച്ച വിവർത്തനത്തിൽ ഗ്രാമത്തിലെ 'മൃദുലഹൃദയരായ സ്ത്രീകൾ' ബുധിയ മരിച്ചു കിടക്കുമ്പോൾ അവിടെയെത്തി കണ്ണീർ പൊഴിച്ചതായി നിങ്ങൾക്കറിയാം അവളുടെ ദൌർഭാഗ്യത്തെക്കുറിച്ചും അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചും അവർ ഒരു തരത്തിൽ സഹതപിച്ചു അതിനാൽ ഒരു നിഗമനത്തിലെത്താൻ പ്രയാസമാണ് പ്രൊഫസ്സർ അവർ കറുത്തവരെന്നും വെളുത്തവരെന്നും വിവേചനം ഉള്ളവരല്ല നിങ്ങൾക്കറിയാം ഇവിടെ വിധികൾ രൂപപ്പെടുത്തുകയാണ് വേണ്ടത് കാരണം നമുക്കറിയാം ഈ രണ്ട് പുരുഷന്മാരും ക്രൂരന്മാർ ആണ് അവരുടെ ക്രൂരതയുടെ ആഴം അളക്കുന്നതും അത്ര എളുപ്പമല്ല ഇവിടെ ലഭ്യമായ വിവരണങ്ങൾ അനുസരിച്ച് കൂടാതെ കഥാകൃത്ത് പറയുന്നത് പോലെ എന്തിനാണ് അവർ ഇത്ര ക്രൂരത കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നതും തനിക്ക് അറിവുള്ള കാര്യമാണ് അതിനാൽ തനിക്ക് അറിയാവുന്നതു പോലെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് അവരെ നോക്കിക്കാണാനും അവരുടെ ജീവിതരീതികളെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ നടത്താനും മാത്രമേ നമുക്കു സാധിക്കൂ ആര്യ ശരി ഘിസു ഒരിക്കൽ ഇങ്ങനെയും അഭിപ്രായപ്പെടുന്നുണ്ട് ജീവിച്ചിരുന്നപ്പോൾ അവളുടെ ശരീരം മറയ്ക്കാൻ ഒരു തുണി പോലും ലഭിക്കാത്ത ഒരു സ്ത്രീയ്ക്ക് അവൾ മരിക്കുമ്പോൾ ഒരു പുതിയ മൂടുപടം ആവശ്യമായി വരുന്നു എന്നത് എന്തൊരു മോശം ആചാരമാണ് ആര്യ ബുധിയ ജീവിച്ചിരുന്നപ്പോൾ അവൾക്ക് വേണ്ടി ഉരുത്തിരിഞ്ഞ നാമമാത്രമായ അടിസ്ഥാന സൌകര്യങ്ങളേയും അവൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ബഹുമാനത്തെയും ഒക്കെയാണ് മൂടുപടം എന്നത് പ്രതിനിധീകരിക്കുന്നത് ഈ അഭിപ്രായത്തോട് താങ്കളും യോജിക്കുന്നുണ്ടോ മാഡം പ്രൊഫസ്സർ അതെ അതെ എന്നു തന്നെ ആയിരുന്നു എൻ്റേയും ഉത്തരം എൻ്റെ വിവർത്തനത്തിൽ രേഖപ്പെടുത്തിയ ആ അഭിപ്രായം കഥാകൃത്ത് തന്നെ പ്രകടിപ്പിച്ചതായിരുന്നു കുറഞ്ഞത് അതിനെ സ്വതന്ത്രമായ പരോക്ഷ വ്യവഹാരത്തിൻ്റെ ഭാഗമായി കണക്കാക്കേണ്ടതാണ് അതുകൊണ്ട് ഇതാണ് ഇവിടെ പേജ് 18 ൽ ഉള്ളത് ഇത് എന്തൊരു സങ്കടകരമായ ആചാരമാണ് ഘിസുവോ മാധവോ ഇത്തരത്തിൽ പറയുന്നില്ല അതിനാൽ ഇത് എന്തൊരു സങ്കടകരമായ ആചാരമാണ് എന്നത് കഥാകൃത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീക്ഷണമാണ് ഒരുപക്ഷേ അദ്ദേഹം ഘിസുവിൻ്റെയും മാധവിൻ്റെയും കാഴ്ചപ്പാടുകൾ ഒരുമിച്ച് ചേർത്ത് അവതരിപ്പിക്കുന്നതും ആകാം നമുക്ക് അതിനെ അങ്ങനെയും വ്യാഖ്യാനിക്കാം ആര്യ എന്നാൽ ഈ ഒരാശയം മാധവിൻ്റെയും ഘിസുവിൻ്റെയും സംഭാഷണങ്ങൾക്ക് ഇടയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ വീണ്ടും ഇത് നമ്മെ ആശയക്കുഴപ്പത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നു പ്രൊഫസ്സർ അതിനാൽ ഈയൊരു വിവർത്തനവും അതിലെ സവിശേഷ ഭാഗങ്ങളും വായിക്കാൻ എന്നെ അനുവദിക്കൂ അതിലൂടെ നമുക്ക് ഒരു വ്യാഖ്യാനം രൂപപ്പെടുത്തി എടുക്കാൻ സാധിക്കും "ജീവിച്ചിരുന്നപ്പോൾ ദേഹം മറയ്ക്കാൻ പഴന്തുണിപോലും ഇല്ലാതിരുന്ന സ്ത്രീകൾക്കു ഇപ്പോൾ ഒരു മൂടുപടം വേണ്ടി വരുന്നത് എത്ര സങ്കടകരമായ ഒരു ആചാരമാണ് എല്ലാത്തിനുമുപരി ആ മൂടുപടം ശവശരീരത്തോടൊപ്പം കത്തിച്ചു കളയുകയും ചെയ്യും പിന്നെ എന്താണ് അവശേഷിക്കുന്നത് ഇതേ അഞ്ചു രൂപ നേരത്തെ വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും മരുന്ന് വാങ്ങാൻ സാധിച്ചേനേ പ്രൊഫസ്സർ ഇവിടെ ഘിസുവും മാധവും പരസ്പരം ചിന്തകളെ അളക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിനാൽ ഈ ചിന്തകൾ കഥാകൃത്തിലൂടെ സംപ്രേഷണം ചെയ്ത ഇവരുടെ ചിന്തകളാകാം അല്ലെങ്കിൽ അത് കഥാകൃത്തിൻ്റെ സ്വന്തം അഭിപ്രായങ്ങളാകാം തുടർന്ന് ഈ വ്യക്തികൾ പരസ്പരം അവരുടെ ചിന്തകളെക്കുറിച്ച് അറിയുവാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു പ്രൊഫസ്സർ അതിനാൽ ഇവിടെ ഒരു അവ്യക്തത ഉണ്ട് ഇത് ഒരിക്കൽക്കൂടി വിരൽ ചൂണ്ടുന്നത് കഥാകൃത്തിൻ്റെ കഴിവും കൌശലവും സമന്വയിപ്പിച്ചു കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് തന്നെയാണ് ആ ഒരു കാഴ്ചപ്പാട് ഈ രണ്ടു കഥാപാത്രങ്ങളുടെ മേൽ മാത്രമല്ല മറിച്ച് ആ സമൂഹത്തിലെ ആചാരങ്ങളുടേയും നിയമങ്ങളുടേയും ചട്ടങ്ങളുടേയും നേർക്ക് കൂടി ഉള്ളതാണ് എന്നു മാത്രമല്ല ആ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വ്യവസ്ഥിതികൾ എങ്ങനെയാണ് പ്രായോഗിക തലത്തിൽ ഓരോ ഗ്രാമത്തിലും ഓരോ പ്രദേശങ്ങളിലും നടപ്പാക്കപ്പെടുന്നത് എന്നും നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ അതെ അവൾ ജീവിച്ചിരിക്കുമ്പോൾ അവൾക്ക് അർഹമായത് ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല ഇപ്പോൾ അവൾ മരിച്ചു കിടക്കുമ്പോൾ എങ്കിലും അവൾക്കത് ലഭിക്കുന്നുണ്ടെന്ന് എല്ലാവരും ചേർന്ന് ഉറപ്പാക്കുന്നു അതാണ് നാം കാണേണ്ടതായ കാര്യം ആര്യ മാഡം മൂടുപടം എന്ന ഈ കഥയുടെ ശീർഷകത്തിൻ്റെ ഔചിത്യത്തെക്കുറിച്ച് താങ്കൾക്കുള്ള അഭിപ്രായം പറയാമോ പ്രൊഫസ്സർ മൂടുപടം എന്ന ആശയം ചില കാര്യങ്ങളിൽ അനുയോജ്യമാണ് എന്നാൽ ഇത് ഒരുതരം ആവരണം ആണെന്നും കൂടി ഞാൻ അഭിപ്രായപ്പെടുകയാണ് ഇവിടെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളെയും മറഞ്ഞിരിക്കുന്ന പദപ്രയോഗങ്ങളേയും ഒഴിച്ചു നിർത്തി പരിശോധിച്ചാൽ കഥാകൃത്ത് അതായത് പ്രേംചന്ദ് വളരെ ദയാലു ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കപടമായ ആചാരങ്ങൾക്കെല്ലാം നേരെ അദ്ദേഹം കുറ്റപ്പെടുത്തലിൻ്റെ വിരൽ ചൂണ്ടുന്നുണ്ട് അവയെല്ലാം ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന മറ്റ് പ്രശ്നങ്ങൾക്കും മറ്റ് സങ്കീർണ്ണതകൾക്കും ഒക്കെ മറ പിടിക്കാനുള്ള മൂടുപടങ്ങൾ ആണെന്നുള്ള സൂചനയും ഇവിടെ നിങ്ങൾക്ക് കാണാം ഭക്ഷണത്തിൻ്റെ അഭാവമാണ് വലിയ പ്രശ്നം അതായത് മാന്യമായ ഭക്ഷണത്തിൻ്റെ അഭാവം തന്നെയാണ് വലിയ പ്രശ്നം ഈ പുരുഷന്മാർക്ക് വല്ലപ്പോഴും എങ്കിലും നല്ല ഒരു ഭക്ഷണം ലഭിക്കേണ്ടതല്ലേ എന്ന ആശയത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു പ്രൊഫസ്സർ അതിനാൽ ഈ പ്രത്യേക കഥയിൽ പറയുന്ന പട്ടിണിയെക്കുറിച്ചുള്ള ആശയം എന്നത് ഒരു തരത്തിൽ പുതപ്പിൻ്റെ അടിയിലേക്ക് തള്ളപ്പെടുന്നതു പോലെയാണ് അഥവാ മുടുപടത്തിൻ്റെ ഉള്ളിലേക്ക് തള്ളപ്പെടുന്നതു പോലെ ആണ് പക്ഷേ നല്ല സൂക്ഷ്മതയോടെയുള്ള ഒരു വായന ഇവിടെ ഉള്ള ഈ ഒരു ആശയത്തെ വെളിച്ചത്തു കൊണ്ടുവരും ആര്യ നന്ദി പ്രൊഫസ്സർ ഈ സംഭാഷണം ശ്രദ്ധയോടെ കണ്ടു കൊണ്ടിരുന്നതിന് വളരെ നന്ദി നിങ്ങൾ ഈ അദ്ധ്യായം ആസ്വദിച്ചുവെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ഒരു അദ്ധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം